ഐസോമെട്രിക് പ്രൊജക്ഷൻസ് എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന നമ്മളുടെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് സ്വാഗതം നമ്മൾ ഒരു പുതിയ മൊഡ്യൂൾ 6 തുടങ്ങുന്നു ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ വെച്ച് ആരംഭിക്കാം ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ ശരിക്കും നോക്കുന്നതിന് മുമ്പ് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കോഴ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ വ്യത്യസ്ത തരം പ്രൊജക്ഷനുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണും അതിനാൽ വ്യത്യസ്ത പ്രൊജക്ഷനുകൾ സാധാരണയായി മുഴുവൻ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ഗ്രാഫിക്കൽ പ്രൊജക്ഷനുകളും പാരല്ലെൽ പ്രോജക്ഷൻസ് പെർസ്പെക്ടിവ് പ്രൊജക്ഷനുകൾ എന്നിവയായി പരാമർശിക്കാം പാരല്ലെൽ പ്രൊജക്ഷനുകളിൽ നമ്മൾക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളും ഒബ്ലിക് പ്രൊജക്ഷനുകളും ഉണ്ട് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളിൽ പ്രത്യേകിച്ച് ലംബമായ കോർഡിനേറ്റ് സിസ്റ്റങ്ങളിൽ നമ്മൾക്ക് ഒന്നിലധികം കാഴ്ചകളും ആക്സോണോമെട്രിക് തരത്തിലുള്ള പ്രൊജക്ഷനുകളും ഉണ്ട് അതിനാൽ ഒന്നിലധികം കാഴ്ചകളിൽ നമ്മൾക്ക് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനുകൾ ഉണ്ട് അതിനാൽ വ്യത്യസ്ത കാഴ്ചകൾ ടോപ് വ്യൂ സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും സാധാരണയായി സിവിൽ എഞ്ചിനീയർമാരും വാസ്തുവിദ്യാ ആൾക്കാരും പ്ലാനും എലവേഷൻ രീതികളും ഉപയോഗിക്കുന്നു ഇവ വ്യുകൾ ആണ് ത്രിമാന ഒബ്ജക്റ്റിലേക്ക് വരുന്നു പ്രൊജക്ഷനുകൾ ആക്സോണോമെട്രിക് പ്രൊജക്ഷനുകളിൽ ഇവ ഓർത്തോഗ്രാഫിക് ആണ് നമ്മൾക്ക് ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ ഡൈമെട്രിക് പ്രൊജക്ഷനുകൾ ട്രൈമെട്രിക് പ്രൊജക്ഷനുകൾ എന്നിവയുണ്ട് ഈ ഐസോമെട്രിക് ഡൈമെട്രിക് ട്രൈമെട്രിക് പ്രൊജക്ഷനുകളെക്കുറിച്ച് നമ്മൾ പിന്നീട് കാണും അതുപോലെ ഇത് ഒബ്ലിക് തരത്തിലുള്ള പ്രൊജക്ഷനുകളാണെങ്കിൽ നമ്മൾക്ക് കാബിനറ്റ് തരത്തിലുള്ള വ്യൂകൾ കവലിയർ തരത്തിലുള്ള വ്യൂകൾ മിലിട്ടറി തരത്തിലുള്ള വ്യൂകൾ എന്നിവയുണ്ട് അതുപോലെ പെർസെപ്റ്റീവ് പ്രൊജക്ഷനുകളിൽ ഇവ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മൾ ഒരു നിശ്ചിത പോയിന്റിലൂടെ നോക്കുകയും ഏത് തരത്തിലുള്ള വ്യൂകൾ കാണുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് 1 പോയിന്റ് പ്രൊജക്ഷനുകൾ 2 പോയിന്റ് പ്രൊജക്ഷനുകൾ ഉണ്ട് അവിടെ നിന്നുള്ള 2 പോയിന്റുകൾ പോലെ വ്യൂകൾ ദൃശ്യവൽക്കരിക്കേണ്ടതുണ്ടെങ്കിൽ അത് എങ്ങനെ കാണപ്പെടുന്നു കൂടാതെ 3 പോയിന്റ് പ്രൊജക്ഷനുകളും വളഞ്ഞ തരത്തിലുള്ള പ്രൊജക്ഷനുകളും അടുത്ത രണ്ട് സെക്ഷന്സിൽ പ്രധാനമായും ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ നമ്മൾ പരിശോധിക്കും ഇവ ആക്സോണോമെട്രിക് പ്രൊജക്ഷനുകൾക്ക് കീഴിലാണ് അതിനാൽ ഈ വ്യത്യസ്ത പ്രൊജക്ഷനുകൾക്ക് കീഴിൽ നമ്മൾ ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ കണ്ടു പ്രൊജക്ഷൻ അല്ലെങ്കിൽ പിക്ചർ പ്ലെയിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒബ്ജക്റ്റ് ആക്സിസിലൂടെ തിരിക്കുന്നതിലൂടെ ഒരു വസ്തുവിന്റെ ചിത്രരചന സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാരല്ലെൽ പ്രൊജക്ഷൻ സാങ്കേതികതയാണിത് അതിനാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് നമുക്ക് വ്യത്യസ്തമായ കാഴ്ച്ചകൾ ഉണ്ടാകുന്ന രീതിയിൽ കറങ്ങണം ഇത് ഒരു പാരല്ലെൽ പ്രൊജക്ഷൻ സാങ്കേതികതയാണ് അതിനാൽ നമ്മൾ കാണുന്നതെന്തും നമ്മൾ അത് കാണിക്കുന്നു അതിൽനമ്മൾക്ക് 3 ഇനങ്ങൾ ഐസോമെട്രിക് ഡൈമെട്രിക് ട്രൈമെട്രിക് പ്രൊജക്ഷനുകൾ ഉണ്ട് പ്രത്യേകിച്ചും ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ ഈ ലൈൻ 30 ഡിഗ്രി കോണാക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാണും ഡൈമെട്രിക്കിൽ ഈ കോൺ 30 ഡിഗ്രിയേക്കാൾ കുറവാണ് അതിനെ നമ്മൾ ഒരു വശത്ത് 15 ഡിഗ്രി എന്ന് വിളിക്കുന്നു ഇത് ട്രൈമെട്രിക് പ്രൊജക്ഷനാണെങ്കിൽ നമ്മൾക്ക് മൂന്ന് വ്യത്യസ്ത കോണുകളുണ്ട് അതിനാൽ നമുക്ക് 15 ഡിഗ്രി 45 ഡിഗ്രി ഉണ്ടാകും ശേഷിക്കുന്നത് മറ്റ് കോണുകളാക്കുന്നു അതിനാൽ അത്തരം മൂന്ന് കോണുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ട്രൈമെട്രിക് ഐസോമെട്രിക് സമാന കോണുകളിൽ നമുക്ക് 30 ഡിഗ്രി ആയിരിക്കും ഡൈമെട്രിക്കിൽ നമുക്ക് രണ്ട് വ്യത്യസ്ത കോണുകളുണ്ടാകും ഇപ്പോൾ ഈ ഐസോമെട്രിക് പ്രൊജക്ഷനെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കും ഐസോമെട്രിക് എന്നാൽ തുല്യ അളവ് ഇവിടെ തുല്യ അളവിലുള്ള കോണുകൾ നമുക്ക് ലഭിക്കും ഇത് ഒരുതരം പാരല്ലെൽ പ്രൊജക്ഷനാണ് പാരല്ലെൽന്റെ മറ്റൊരു പദം അക്സോനോമെട്രിക് ആണ് ഇവിടെ എക്സ് ഇസഡ് ആക്സിസ് 30 ഡിഗ്രി കോണിൽ തിരശ്ചീന തലത്തിലേക്ക് ചായുന്നു അതിനർത്ഥം എന്നെ ഒരു വസ്തുവായി എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ ക്യൂബോയിഡ് ഈ കോൺ 30 ഡിഗ്രിയാണ് അതുപോലെ ഈ കോൺ 30 ഡിഗ്രിയാണ് ആക്സോണോമെട്രിക് ആക്സിസ് തമ്മിലുള്ള കോൺ 120 ഡിഗ്രിക്ക് തുല്യമാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ക്യൂബോയിഡ് ലൈനുകൾ ഉണ്ട് വശങ്ങളുടെ അരികുകൾ അതിനാൽ നമുക്ക് എഡ്ജ് എ എഡ്ജ് ബി എന്ന് വിളിക്കാം കാഴ്ചയിൽ എഡ്ജ് എ എഡ്ജ് ബി എന്നിവ തമ്മിലുള്ള കോൺ എല്ലായ്പ്പോഴും 120 ഡിഗ്രി ആയിരിക്കും പരസ്പരം 90 ഡിഗ്രി കോണുള്ള ഓർത്തോഗണൽ ഉള്ള യഥാർത്ഥ വസ്തു എന്നാൽ ദ്വിമാന പ്ലെയിൻ അരികുകൾ എല്ലാ വശങ്ങളിലും 120 ഡിഗ്രി തുല്യമാക്കുന്ന ആക്സിസ് ഐസോമെട്രിക് ആക്സിസ് എന്നിവയിൽ നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ കാണിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇതാണ് അതിനാൽ ഞാൻ ഇവിടെ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഏതെങ്കിലും വസ്തു ഒബ്ജക്റ്റ് അളവ് ഇവിടെ 30 ഡിഗ്രി ഉണ്ടാക്കും അതുപോലെ ഇത് 30 ഡിഗ്രി ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് ഒരു ക്യൂബിന്റെ അരികുകൾ പ്രൊജക്റ്റുചെയ്യുന്നതിനാൽ അവയെല്ലാം ഒരേ അളവുകളും തുല്യ കോണുകൾ പരസ്പരം 120 ഡിഗ്രി ഉണ്ടാക്കുകയും ചെയ്യും ഐസോമെട്രിക് വ്യൂവിൽ ഉള്ള ആദ്യ കാര്യം അതാണ് ഉദാഹരണത്തിന് ഞാൻ എ എഡ്ജ് ബി എഡ്ജ് സി എഡ്ജ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇവ ഏകപക്ഷീയമായി ഞാൻ തിരഞ്ഞെടുക്കുന്നു ആ പ്രധാന അരികുകൾ എന്താണെന്ന് നമ്മൾ തീരുമാനിച്ചുകഴിഞ്ഞാൽ അവ പ്രൊജക്ഷന് പ്ലെയിൻ ഉപയോഗിച്ച് തുല്യ കോണുകൾ ഉണ്ടാക്കണം അതിനാൽ ആ വസ്തുവിനെ നാം ആ രീതിയിൽ തിരിക്കണം ഞാൻ ആ വസ്തുവിനെ ദൃശ്യവൽക്കരിക്കുമ്പോൾ ഈ അരികുകൾ 120 ഡിഗ്രി ഉണ്ടാക്കും ഇപ്പോൾ ഐസോമെട്രിക് ആക്സിസ്നേ കുറിച്ചും ഐസോമെട്രിക് പ്ലെയിനുകളെക്കുറിച്ചും കൂടുതൽ നോക്കും ക്യൂബിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷനിലെ കോണുകൾ 120 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രിയാണ്നമ്മൾ എങ്ങനെ നിർവചിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി എല്ലാം 90 ഡിഗ്രി കോണുകളുടെ പ്രൊജക്ഷനുകളാണ് അതിനാൽ നമ്മൾ ഒരു ക്യൂബോയിഡ് എടുക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ഒരു ക്യൂബോയിഡ് എടുക്കുന്നു അവിടെ അരികുകൾ 90 ഡിഗ്രിയാണ് ഈ അരികുകൾക്കിടയിലുള്ള കോൺ 120 ഡിഗ്രി ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ ഓറിയന്റു ചെയ്യുന്നു ഒരാൾക്ക് ആ അരികുകൾ ഐസോമെട്രിക് ആക്സിസ് ആയി ഉപയോഗിക്കാം കാരണം ഇവിടെ അരികുകൾ 120 ഡിഗ്രി ഉണ്ടാക്കുന്നു അതിനാൽ ഈ ലൈനുകൾ നമ്മുടെ ഐസോമെട്രിക് ആക്സിസ് ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് അവ 120 ഡിഗ്രി ഉണ്ടാക്കുന്നില്ല അതിനാൽ അവ ഐസോമെട്രിക് ആക്സിസ് അല്ല 120 ഡിഗ്രി ഉണ്ടാക്കുന്ന അരികുകൾ എന്തുതന്നെയായാലും നമ്മൾ അവയെ ആക്സിസ് എന്ന് വിളിക്കുന്നു ഒരു ക്യൂബിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ക്യൂബിന്റെ ഫേസും അവയ്ക്ക് പാരല്ലെൽ ആയ ഏതെങ്കിലും പ്ലെയിനുകളും ഐസോമെട്രിക് പ്ലെയിൻ എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെ ഫേസ്കൾ ഉണ്ട് ഇത് ഒരു ഫേസ് ഇതാണ് മറ്റൊരു ഫേസ് ഇത് മറ്റൊരു ഫേസ് അതിനാൽ ഇവ ഐസോമെട്രിക് പ്ലെയിൻ അതിനു പാരല്ലെൽ ആയി ഏത് പ്ലെയിനും നമ്മൾ അതിനെ ഐസോമെട്രിക് പ്ലെയിൻ എന്ന് വിളിക്കുന്നു ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മൾ ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ അത് ഒരു ഹെക്സഗൺ പോലെ നമ്മൾക്കു തോന്നുന്നു അതിനാൽ നമുക്ക് ഈ അരികുകൾ നോക്കാം സംരക്ഷണ കാര്യത്തിനായി ഒരാൾ ഡ്രോയിംഗ് ഷീറ്റുകൾ നൽകുമ്പോൾ ഇത് സ്റ്റാൻഡേർഡ് കൺവെൻഷനുകളാണ് ഈ അരികുകളിൽ ഒന്നിന് പാരല്ലെൽ ആയി ഏത് ലൈനും ഐസോമെട്രിക് ലൈനുകൾ എന്ന് വിളിക്കുന്നു ഇതൊരു ഐസോമെട്രിക് ലൈൻ ആണ് അതിന് പാരല്ലെൽ ആയി ഏത് ലൈനും ഐസോമെട്രിക് ലൈനുകൾ ആണ് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ഐസോമെട്രിക് ആക്സിസ്നു പാരല്ലെൽ അല്ല നമ്മൾ നോൺ ഐസോമെട്രിക് ലൈനുകൾ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ആ രീതിയിൽ ഒരു ലൈൻ വരയ്ക്കാം ഈ നീല വര ഈ ഐസോമെട്രിക് അക്ഷത്തിന് സമാന്തരം അല്ല അത്തരം ലൈൻകളെ നമ്മൾ നോൺ ഐസോമെട്രിക് ലൈനുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ ലൈനുകൾ അളക്കുമ്പോൾ കോണുകൾ അളക്കുമ്പോൾ യഥാർത്ഥ ലൈനുകൾ ഒരുപക്ഷേ ഐസോമെട്രിക് ലൈൻകളിലാണെന്ന് നമ്മൾ പിന്നീട് കാണും ഐസോമെട്രിക് ആക്സിസ്ന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ അത് കണക്കാക്കേണ്ടതുണ്ട് ഐസോമെട്രിക് അല്ലാത്ത ലൈനുകളിൽ നമ്മൾ നീളം എടുക്കരുത് നമ്മൾ പോയിന്റുകൾ കണ്ടെത്തുന്നു ആ ദൂരം അളക്കുന്നു ഐസോമെട്രിക് അനുസരിച്ച് ആ ദൂരം പരിവർത്തനം ചെയ്യുക തുടർന്ന് നമ്മൾ യഥാർത്ഥ ലൈൻകളിലേക്ക് പരിവർത്തനം ചെയ്യും അതിനാൽ നിങ്ങൾ ഈ ഐസോമെട്രിക് പ്ലെയിൻ ഐസോമെട്രിക് ആക്സിസ് ലൈനുകൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യ ഘട്ടം ഈ ഐസോമെട്രിക് ആക്സിസ് വിവരങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് ഇത് ലഭിക്കുകയുള്ളൂ അത് കൂടുതൽ പരിഷ്കരിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഐസോമെട്രിക് സ്കെയിൽ എന്ന സ്കെയിൽ ഉപയോഗിക്കുന്നു ഇത് ഐസോമെട്രിക് ലെംഗ്ത് മുതൽ ട്രു ലെംഗ്ത് വരെ നിർവചിക്കപ്പെടുന്നു അതിനാൽ ക്യൂബോയിഡിന് വാസ്തവത്തിൽ യൂണിറ്റ് അളവുകൾ ഉണ്ടായിരിക്കാം ഐസോമെട്രിക് പ്രൊജക്ഷന്റെ വീക്ഷണകോണിൽ നമ്മൾ അതിനെ ഒരു പേപ്പറിൽ പ്രതിനിധീകരിക്കുമ്പോൾ ഒബ്ജക്റ്റ് വലുപ്പം ഒരു യൂണിറ്റ് നീളമായിരിക്കില്ല അത് മാറുന്നു സാധാരണയായി ഇത് യഥാർത്ഥ നീളത്തിന്റെ 0 82 മടങ്ങ് ആയി മാറുന്നു ആ കണക്കുകൂട്ടൽ നമ്മൾ കാണും ഉദാഹരണത്തിന് നമ്മൾക്ക് ഒരു യഥാർത്ഥ സ്കെയിൽ ഉണ്ടെങ്കിൽ ആ ദൈർഘ്യം അതിനെ ഒരു പ്രൊജക്ഷനായി പ്രതിനിധീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു ഡൈമൻഷണൽ പ്രൊജക്ഷൻ എനിക്ക് കാണിക്കണമെങ്കിൽ ഈ സ്കെയിൽ 45 ഡിഗ്രി കോണിലാണ് നമ്മൾ ഇവ ഐസോമെട്രിക്കിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഈ ദൈർഘ്യം നമ്മൾ അതിനെ 30 ഡിഗ്രി പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നു അതിനാൽ ഇതാണ് നീളം അതാണ് നമ്മൾ ഗ്രാഫ് ഷീറ്റിൽ കാണിക്കുന്നത് അതിനാൽ ഡ്രോയിംഗ് ഷീറ്റിൽ നമ്മൾ എല്ലായ്പ്പോഴും എക്സ് കോർഡിനേറ്റ് വയ് കോർഡിനേറ്റ് തരത്തിലുള്ള വിവരങ്ങൾ കണക്കാക്കുന്നു ഉദാഹരണത്തിന് ആ എക്സ് ഞാൻ അത് അളക്കുകയാണെങ്കിൽ ഡ്രോയിംഗ് ഷീറ്റിലെ ആ പോയിന്റ് എന്തായിരിക്കാം ഈ എക്സ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആകാം എനിക്ക് ഇത് എഴുതാം A cos 30 x എന്നിരുന്നാലും യഥാർത്ഥ ലൈൻ 45 ഡിഗ്രി നീളമോ 45 ഡിഗ്രി ചെരിവോ ആണ് അങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രി കോണാക്കി ആ ലൈനെ ബി എന്ന് നമുക്ക് വിളിക്കാം അതിനാൽ B cos 45 x ആയിരിക്കും കാരണം നമ്മൾ വീണ്ടും ഈ പ്ലേയിനിലേക്ക് ആ നീളം പ്രൊജക്റ്റ് ചെയ്യുന്നു അതിനാൽ രണ്ട് സന്ദർഭങ്ങളിലും എക്സ് ഒരേ മാർഗ്ഗങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു B cos 45 A cos 30 ന് തുല്യമാണ് അതിനാൽ ഡ്രോയിംഗ് ഷീറ്റിൽ ഞാൻ ആ യഥാർത്ഥ ലൈനിനും ഈ പ്രൊജക്റ്റേട് ലൈനിനും ഒരേ എക്സ് പ്രതിനിധീകരിക്കാൻ പോകുന്നുവെങ്കിൽ അപ്പോൾ ഞാൻ പരസ്പരം തുലനം ചെയ്യണം ഞാൻ പരസ്പരം തുലനം ചെയ്യാൻ പോകുന്നുവെങ്കിൽ തുടർന്ന് എ ഭാഗം ബി അതാണ് ട്രു ലെംഗ്ത് എനിക്ക് cos 45 ഭാഗം cos 30 ലഭിക്കും അതിനാൽ ഇതാണ് ട്രു ലെംഗ്ത് ഇതാണ് ഐസോമെട്രിക് നീളം അതിനാൽ ഐസോമെട്രിക് സ്കെയിൽ അത്തരം പദങ്ങളെ നിർവചിക്കുന്നു അവിടെ നമ്മൾ ഐസോമെട്രിക് ദൈർഘ്യങ്ങളെ യഥാർത്ഥ നീളങ്ങളുമായി താരതമ്യം ചെയ്യാൻ പോകുന്നു അതിനാൽ നമ്മൾ ഐസോമെട്രിക് ദൈർഘ്യം നോക്കുമ്പോൾ ഇത് എല്ലായ്പ്പോഴും ഈ എക്സ് ആക്സിസിൽ 30 ഡിഗ്രി ഉണ്ടാക്കുന്നു ആക്സിസ് 120 ഡിഗ്രിയാണെങ്കിലും തിരശ്ചീനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അളക്കുമ്പോൾ അത് 30 ഡിഗ്രി ഉണ്ടാക്കുന്നു അതിനാൽ ആ ഐസോമെട്രിക് ദൈർഘ്യമുള്ളത് ഇവിടെ കോസ് 30 വരുന്നു ട്രു ലെങ്ക്ത് ഫക്ടർ 45 ആണ് അതിനാൽ നിങ്ങളുടെ ഐസോമെട്രിക് സ്കെയിൽ എല്ലായ്പ്പോഴും cos 45 ഭാഗം cos 30 ആണ് അതിനാൽ ഇത് 1√2 ഭാഗം √3 2 ആയിരിക്കും അതായത് 0 8165 ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട സ്കെയിൽ ഏകദേശം 80 ശതമാനം ഏകദേശം 82 ശതമാനം അതിനാൽനമ്മൾ പ്രതിനിധീകരിക്കാൻ പോകുന്ന ഏതൊരു ഐസോമെട്രിക് നീളവും നിങ്ങളുടെ യഥാർത്ഥ നീളത്തിന്റെ 0 82 മടങ്ങ് ആയിരിക്കും അതിനാൽ നമ്മൾ അളക്കുന്ന ഒരു ഡ്രോയിംഗ് ഷീറ്റിൽ ഐസോമെട്രിക് ദൈർഘ്യം പോലെയുള്ള ഒന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ ട്രു ലെംഗ്ത് ആ നീളത്തിന്റെ 0 82 മടങ്ങ് ആയിരിക്കും ഉദാഹരണത്തിന് പ്രൊജക്ഷനിൽ ഈ ഒബ്ജക്റ്റിനനെ ഡ്രോയിംഗ് ഷീറ്റിൽ ഞാൻ കാണുന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഒബ്ജക്റ്റ് ആ ഐസോമെട്രിക് പ്രൊജക്ഷനേക്കാൾ വളരെ വലുതായിരിക്കും തിരിച്ചും നിങ്ങളുടെ പൂർണ്ണ സ്കെയിൽ കാഴ്ച 0 82 മടങ്ങ് കുറയും ഐസോമെട്രിക്കിൽ ഈ കോൺ എല്ലായ്പ്പോഴും 120 ഡിഗ്രിയാണ് സമാനമായി പെർസ്പെക്ടിവ് വ്യൂവിൽ നമ്മൾ താരതമ്യം ചെയ്യാൻ പോകുന്നുവെങ്കിൽ ഉദാഹരണത്തിന് ഈ പോയിന്റിലേക്കുള്ള ഈ പോയിന്റിൽ നിന്നുള്ള ദൈർഘ്യം നമുക്ക് എച്ച് എന്ന് വിളിക്കാം ഈ പോയിന്റിലേക്ക് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഡബ്ലൂ എന്ന് വിളിക്കാം കൂടാതെ hw 1√3 ക്ക് തുല്യമാണെങ്കിൽ ടോപ് വ്യൂവിൽ അത് ആ കോണിനെ 45 ഡിഗ്രി ആക്കുന്നു കാരണം ഇത് 30 ഡിഗ്രിയാണ് ഇൻസൈഡ് വ്യൂവിൽ ഒരേ ഒബ്ജക്റ്റ് 35 ഡിഗ്രി ആംഗിൾ കുറയ്ക്കുന്ന സ്കെയിൽ പോലെ കാണപ്പെടുന്നു അതിനാൽ നമ്മൾ അതിനെ ഐസോമെട്രിക് വ്യൂവിൽ പ്രതിനിധീകരിക്കുമ്പോൾ കോണുകൾ മാറുന്നു ദൈർഘ്യം മാറുന്നു ഈ ലംഗ്ത് സ്കെയിലുകളെയും മറ്റ് കാര്യങ്ങളെയും കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം ഒരു ഐസോമെട്രിക് ലംഗത് ഡ്രോയിംഗിൽ ഐസോമെട്രിക് ലൈൻകളിലൂടെ മാത്രമേ യഥാർത്ഥ നീളത്തിന്റെ ദൂരം അളക്കാൻ കഴിയൂ അത് ഐസോമെട്രിക് ആക്സിസിന് പാരല്ലെൽ ആയുള്ള ലൈനുകൾ ആണ് ഉദാഹരണത്തിന് ഞാൻ നിർവചിക്കുകയാണെങ്കിൽ ഇവ ഐസോമെട്രിക് ആക്സിസ് ആണ് എനിക്ക് ഇത് യഥാർത്ഥ നീളമായി അളക്കാൻ കഴിയും ഐസോമെട്രിക് ആക്സിസ്ന് പാരല്ലെൽ ആയി പ്രവർത്തിക്കാത്ത ഏത് ലൈനിനെയും നോൺ ഐസോമെട്രിക് ലൈൻ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ ഒരു ലൈൻ തിരഞ്ഞെടുക്കാൻ പോകുന്നുവെങ്കിൽ അത് ഇതായിരിക്കാം കാരണം ഈ ലൈൻ ഇതിന് പാരല്ലെൽ ആണ് അതിന് സമാനമാണ് ഈ ലൈൻ അതിനാൽ ഇവ ഐസോമെട്രിക് ലൈനുകളാണ് എനിക്ക് എല്ലായ്പ്പോഴും ഈ ഐസോമെട്രിക് നീളങ്ങൾ കണ്ടെത്താൻ കഴിയും അതേസമയം മറ്റേതൊരു കോണിലും ഈ ഐസോമെട്രിക് ആക്സിസ് ന് പാരല്ലെൽ അല്ലാത്ത മറ്റേതൊരു ലൈൻ ൻ്റെയും ട്രു ലെംഗ്ത് നേടാൻ കഴിയില്ല നോൺ ഐസോമെട്രിക് ലൈനുകളിൽ ചെരിഞ്ഞതും ഒബ്ലിക്കുമായ ലൈനുകൾ ഉൾപ്പെടുന്നു അവ നേരിട്ട് അളക്കാൻ കഴിയില്ല പകരം രണ്ട് അന്തിമ പോയിന്റുകൾ കണ്ടെത്തി അവ സൃഷ്ടിക്കണം അതിനാൽ ആദ്യം നമ്മൾ പോയിന്റുകൾ കണ്ടെത്തണം ആ പോയിന്റുകളിൽ നിന്ന് നമ്മൾ ഐസോമെട്രിക് ട്രൂ ലെങ്ത് തരത്തിലുള്ള കണക്ഷനുകൾ ഉപയോഗിക്കുന്നു ആ ദൈർഘ്യം എന്താണെന്ന് വിലയിരുത്താൻ ശ്രമിക്കുക ഐസോമെട്രിക് പ്രൊജക്ഷനുകളിൽ പ്രതിനിധീകരിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന ലൈൻകളെക്കുറിച്ച് ഐസോമെട്രിക് ഡ്രോയിംഗുകളിൽ ഒബ്ജക്റ്റിനെ പൂർണ്ണമായി വിവരിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ലൈനുകൾ ഒഴിവാക്കപ്പെടും മിക്ക ഐസോമെട്രിക് ഡ്രോയിംഗുകളിലും മറഞ്ഞിരിക്കുന്ന ലൈനുകൾ ഉണ്ടാകില്ല നിങ്ങൾ ഏതെങ്കിലും ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ തുറക്കുകയാണെങ്കിൽ വളരെ പ്രധാനമല്ലാത്ത ആ മറഞ്ഞിരിക്കുന്ന ലൈനുകൾ സാധാരണയായി കാണിക്കില്ല മറഞ്ഞിരിക്കുന്ന ലൈനുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ഏറ്റവും വിവരണാത്മക വീക്ഷണം തിരഞ്ഞെടുക്കുക അതിനാൽ ആ വസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്നതെന്തും വിശദീകരിക്കുന്ന തരത്തിൽ ആ വസ്തുവിനെ തിരിക്കേണ്ടതുണ്ട് ആ വീക്ഷണത്തിൽ ഈ ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും എല്ലാ പ്രധാന ഫീച്ചറുകളെയും ചിത്രീകരിക്കുന്ന ഒരു ഐസോമെട്രിക് വീക്ഷണം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ലൈനുകൾ ഉപയോഗിക്കാൻ നമ്മളെ അനുവദിച്ചിരിക്കുന്നു അതിനാൽ ഈ വിവരണത്തിന്റെ ഭൂരിഭാഗവും ഉപയോഗിച്ച് ഒബ്ജക്റ്റ് കാണിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽനമ്മൾ ഇപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഈ മറഞ്ഞിരിക്കുന്ന ലൈനുകൾ ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ മധ്യ ലൈനുകളിലേക്ക് മടങ്ങുന്നു സമമിതി കാണിക്കുന്നതിനോ അല്ലെങ്കിൽ വ്യാപ്തി അളക്കുന്നതിനോ മാത്രമാണ് മധ്യലൈനുകൾ വരയ്ക്കുന്നത് സാധാരണയായി മധ്യലൈനുകൾ കാണിക്കില്ല കാരണം പല ഐസോമെട്രിക് ഡ്രോയിംഗുകളും സാങ്കേതികേതര ആളുകളുമായി ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്നു എഞ്ചിനീയറിംഗ് ആവശ്യങ്ങൾക്കല്ല അതിനാൽ നിങ്ങൾ ഐസോമെട്രിക് വ്യൂകൾ കാണിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള മധ്യലൈനുകൾ കാണിക്കും അല്ലാത്തപക്ഷം നമ്മൾ അവ കാണിക്കരുത് നമ്മൾ അളവുകൾ കാണിക്കുമ്പോൾ അളവ് ലൈനുകൾ എക്സ്റ്റൻഷൻ ലൈനുകൾ ഇവ ഒരേ പ്ളെയിനിൽ ആയിരിക്കും അതിനാൽ നമ്മൾ കാണിക്കുന്ന അളവുകൾ എന്തുതന്നെയായാലും എക്സ്റ്റൻഷൻ ലൈനുകൾ നമ്മൾ കാണിക്കും അത് ഒരേ പ്ലെയിനിൽ ആയിരിക്കണം എല്ലാ അളവുകളും കുറിപ്പുകളും ഏകദിശയിലായിരിക്കണം ഡ്രോയിംഗിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വായിക്കുകയും സാധ്യമാകുമ്പോഴെല്ലാം കാഴ്ചയ്ക്ക് പുറത്ത് സ്ഥിതിചെയ്യുകയും വേണം അതിനാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ആ കാഴ്ചയ്ക്ക് പുറത്താണ് ഇത് കാഴ്ചയ്ക്ക് പുറത്താണ് ഇതും കാഴ്ചയ്ക്ക് പുറത്താണ് സാധാരണയായി നമ്മൾ അത് അടിയിൽ നിന്ന് അതിലേക്ക് അളക്കുന്നു അതുപോലെ ഈ നീളം കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ചുവടെ നിന്ന് ഞാൻ അത് കാണിക്കും ഇവ വസ്തുക്കൾക്ക് പുറത്താണ് തിരശ്ചീന മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് ചുവടെ നിന്നും വായിക്കുന്നു തിരശ്ചീന മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവയാണ്നമ്മൾ അത് കാണേണ്ടതുണ്ട് ആ തിരശ്ചീനത്തിന് പാരല്ലെൽ ആയി ഏത് ലൈനും അത് കാണാനുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും ഉദാഹരണത്തിന് നമുക്ക് ഒരു സ്ക്വയർ നോക്കാം ഒരു സ്ക്വയർ എബിസിഡി പരിഗണിക്കുക 30 മില്ലീമീറ്റർ വശമുള്ള ഒരു അളവ്നമ്മൾ അത് ഇവിടെ കാണിച്ചിരിക്കുന്നു സ്ക്വയർ ലംബ തലത്തിൽ സ്ഥിതിചെയ്യുന്നുവെങ്കിൽ ചിത്രം എ യിലെ ഐസോമെട്രിക് കാഴ്ചയിൽ 30 മില്ലീമീറ്റർ വശമുള്ള ഒരു റോമ്പസായി ഇത് ദൃശ്യമാകും ഈ സ്ക്വയർ ലംബ തലത്തിൽ കിടക്കുകയാണെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷനുകളിൽ ഈ ആംഗിൾ 30 ഡിഗ്രി വസ്തുവായി നിർമ്മിക്കുന്നതെന്തും നമ്മൾ കാണും നമ്മൾ അത്തരത്തിൽ കറങ്ങണം അതിനാൽ ആ ഐസോമെട്രിക് പ്ലെയിനിലെ നിങ്ങളുടെ സ്ക്വയർ ഒരു റോമ്പസ് പോലെ കാണപ്പെടുന്നു ഈ രീതിയിലോ അല്ലെങ്കിൽ ആ രീതിയിലോ നമ്മൾ ഏത് തരത്തിലുള്ള പ്രൊജക്ഷനുകളാണ് കാണാൻ ശ്രമിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഇത് വലതുവശത്തെ ലംബ ഫേസ് ഓറിയന്റേഷൻ ആണെങ്കിൽ നമ്മൾ ഇത് കാണും ഇത് ഒരു ഇടതു ലംബ മുഖമാണെങ്കിൽ നമ്മൾ അത് ഈ രീതിയിൽ കാണും സമചതുരം തിരശ്ചീന തലത്തിൽ സ്ഥിതിചെയ്യുന്നുവെങ്കിൽ ഒരു ക്യൂബിന്റെ മുകളിലെ ഫേസ് പോലെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്നു ആ പ്ലെയിൻ തിരശ്ചീന തലത്തിലാണ് അത് ചിത്രം സി ആയി ദൃശ്യമാകും നമുക്ക് അത് വ്യത്യസ്ത ദിശകളിൽ കാണാൻ കഴിയും എന്നാൽ നമ്മൾ അതിനെ ഐസോമെട്രിക് പ്ലെയിൻ പ്രതിനിധീകരിക്കുമ്പോൾ നമ്മൾ കറങ്ങേണ്ട വിധത്തിൽ കറങ്ങണം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം മാറ്റേണ്ട രീതിയിൽ ഈ പ്രധാന അരികുകളിലൊന്ന് പ്ലെയിനുമായി 30 ഡിഗ്രി കോണാക്കുന്നു ഐസോമെട്രിക് പ്രൊജക്ഷനുകളെ നമ്മൾ പ്രതിനിധീകരിക്കേണ്ട വഴി അതാണ് അതിനാൽ ഒരു വ്യൂവിൽ ക്യൂബ് ഇതുപോലെ കാണപ്പെടുമെങ്കിലും ഒരു നിരീക്ഷകൻ അതിനുചുറ്റും നീങ്ങുമ്പോൾ അരികുകളിലൊന്ന് കാഴ്ചയോടൊപ്പം 30 ഡിഗ്രി കോണാക്കി മാറ്റുന്ന തരത്തിൽ നാം കറങ്ങണം അതാണ് നമ്മൾ ദൃശ്യവൽക്കരിക്കേണ്ടത് അതിനാൽ ടോപ് വ്യൂവിൽ നിന്ന് നമ്മൾ ആ സ്ക്വയർ ടോപ്പ് ഫേസ് ഈ അരികുകളിലൂടെ 30 ഡിഗ്രി കോണാക്കി മാറ്റുന്ന രീതിയിൽ തിരിക്കണം ആ വ്യൂ നമ്മൾ ഡ്രോയിംഗ് ഷീറ്റിൽ ഒരു ഐസോമെട്രിക് പ്രൊജക്ഷനായി അവതരിപ്പിക്കണം ഇവിടെ നമ്മൾ ഈ ദീർഘചതുരത്തിന്റെ വ്യത്യസ്ത പ്രൊജക്ഷനുകൾ ഒരു ചതുരാകൃതിയിൽ കാണിക്കുന്നു Refer Time 2551 ഉദാഹരണത്തിന് ഐസോമെട്രിക് വ്യൂവിൽ ബോക്സ് ഈ പ്രധാന അരികുകളിലൊന്ന് 30 ഡിഗ്രി കോണാക്കി മാറ്റുന്ന രീതിയിൽ നമ്മൾ അത് തിരിക്കും കാരണം ഇവ ഓർത്തോഗണൽ ലൈനുകളാണ് അതിനാൽ നിങ്ങൾ അത് തിരിക്കുമ്പോൾ മറ്റൊന്ന് 30 ഡിഗ്രി വരയും ഉണ്ടാക്കുന്നു ഈ കോണുകൾ പരസ്പരം 120 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഉയർത്തുന്നത് നിങ്ങൾ ഇത് കൂടുതൽ മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ആക്സോണോമെട്രിക് തരത്തിലുള്ള വ്യൂകൾ ലഭിക്കും നിങ്ങൾക്ക് 45 ഡിഗ്രി 60 ഡിഗ്രി 30 ഡിഗ്രി തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടായിരിക്കാം നമ്മൾ അത് എങ്ങനെ ദൃശ്യവൽക്കരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് വ്യത്യസ്തമായ വ്യൂകൾ ഉണ്ടാകും ഐസോമെട്രിക്കിന്റെ അടിസ്ഥാന പ്രക്രിയ നിങ്ങൾക്ക് 30 ഡിഗ്രി മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ നമുക്ക് മറ്റെന്തെങ്കിലും വസ്തു എടുക്കാം ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട് അതിന് ഒരു ദ്വാരവുമുണ്ട് ഐസോമെട്രിക് വ്യൂവിൽ ഈ പ്രധാന അരികുകൾ നമ്മൾ നിർവചിച്ചുകഴിഞ്ഞാൽ ഈ പ്രധാന അരികുകളിലൊന്ന് തിരശ്ചീനമായി 30 ഡിഗ്രി ഉണ്ടാക്കുന്നു ഇപ്പോൾ നമുക്ക് മറ്റ് വ്യൂകൾ നോക്കാം ഇത് ട്രൈമെട്രിക് ആണെങ്കിൽ ഈ 30 ഡിഗ്രി ഐസോമെട്രിക് 30 ഡിഗ്രി വ്യത്യസ്ത വലുപ്പത്തിൽ മാറാൻ പോകുന്നു ഇത് 30 ഡിഗ്രി ആയിരിക്കില്ല വ്യത്യസ്തമായി മാറുന്നു അതിനാൽ ഒരു വശത്ത് ഒരു ആംഗിൾ ഫൈ മറ്റൊരു ആംഗിൾ തീറ്റ മൊത്തം തീറ്റ പ്ലസ് ഫൈ എന്നിവ 90 ഡിഗ്രിക്ക് തുല്യമാണ് കാരണം നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഡൈമെട്രിക് ട്രൈമെട്രിക് തരത്തിലുള്ള വ്യൂകൾ അതിനാൽ നമുക്ക് തീറ്റയും ഫൈയും വ്യത്യസ്തമാണെങ്കിൽ അവയുടെ സംഗ്രഹം 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽനമ്മൾക്ക് ഒരു ട്രൈമെട്രിക് വ്യൂ ഉണ്ട് അതിനാൽ അതേ ഐസോമെട്രിക് ഒബ്ജക്റ്റ് നമുക്കുള്ളത് നമ്മൾക്ക് അത് മറ്റൊരു പ്ലെയിനിൽ ലഭിക്കാൻ പോകുന്നതിനാൽ നമ്മൾക്ക് വ്യത്യസ്ത വ്യൂകൾ ലഭിക്കും ഇനി നമുക്ക് ഡൈമെട്രിക് കാഴ്ച നോക്കാം ഡൈമെട്രിക് വ്യൂവിൽ നമ്മൾക്ക് ഇരുവശത്തും തീറ്റ ആംഗിൾ ഉണ്ട് ഈ തീറ്റ ആംഗിൾ 0 മുതൽ 45 ഡിഗ്രി വരെ വ്യത്യാസപ്പെടുന്നു ഇത് 30 ഡിഗ്രി അല്ല അതിനാൽ നമ്മൾക്ക് എല്ലായ്പ്പോഴും ഈ ഒബ്ജക്റ്റ് ഉണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഈ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കാണാൻ പോകുന്ന വ്യത്യസ്ത കാഴ്ചകൾ ഈ രീതിയിൽ തിരിക്കേണ്ടതുണ്ട് ഡൈമെട്രിക്കിൽ ഈ അരികുകളിലൊന്ന് എല്ലായ്പ്പോഴും 0 മുതൽ 45 ഡിഗ്രി വരെ ഒരു കോണാക്കുന്നു ഒരേ കോണിൽ ഒരാൾ അത് മറുവശത്തും കാണേണ്ടതുണ്ട് ഒരു ഉദാഹരണം മാത്രം ഐസോമെട്രിക് വ്യുവിനയി നമ്മൾക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അവയിൽ ചിലത് നമ്മൾ ആക്സിസ് ആയി ശരിയാക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇത് ഒരു ആക്സിസ് ഇത് മറ്റൊരു ആക്സിസ് ഇത് മറ്റൊരു ആക്സിസ് നമുക്ക് ഈ ആക്സിസ് 30 ഡിഗ്രിയാണ് ഈ ആക്സിസും 30 ഡിഗ്രിയാണ് ഇത് ഓർത്തോഗണൽ ആണ് ഡൈമെട്രിക്കിന്റെ കാര്യത്തിൽ നമുക്ക് പാരല്ലെൽ ആയി ഈ ആക്സിസ് ഉണ്ട് നമുക്ക് പാരല്ലെൽ ആയി മറ്റൊരു ആക്സിസ് ഉണ്ട് ഇവയ്ക്ക് ഒരേ കോണാണ് ഉള്ളത് പക്ഷേ 30 ഡിഗ്രി അല്ല അതിനാൽ ഇത്തരത്തിലുള്ളവയെ നമ്മൾ ഡൈമെട്രിക് തരത്തിലുള്ള പ്രൊജക്ഷനുകൾ എന്ന് വിളിക്കുന്നു 100 150 വർഷങ്ങൾക്ക് മുമ്പ് യുഎസിൽ മുൻ കാലങ്ങളിൽ പേറ്റന്റുകൾ സാധാരണയായി ഈ ഡൈമെട്രിക് തരത്തിലുള്ള പ്രൊജക്ഷനുകളായി പോകുമായിരുന്നു പ്രധാനമായും യുകെ തരത്തിലുള്ള പ്രൊജക്ഷനുകൾ അവർ ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഈ ഐസോമെട്രിക് പ്രൊജക്ഷനുകളെക്കുറിച്ച് നമ്മൾ കൂടുതലറിയും